ആശംസകൾ മൊഡ്യൂൾ 3 യൂണിറ്റ് 13 ലേക്ക് സ്വാഗതം നിർദ്ദേശത്തിലേക്കുള്ള അനുഭവപരമായ സമീപനം മുമ്പത്തെ യൂണിറ്റിലെ നിർദ്ദേശങ്ങളോടുള്ള പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം ഞങ്ങൾ മനസ്സിലാക്കി ഈ യൂണിറ്റിൽ നിർദ്ദേശങ്ങളോടുള്ള പരീക്ഷണാത്മക സമീപനം ഞങ്ങൾ മനസ്സിലാക്കും എല്ലാ പഠനവും അടിസ്ഥാനപരമായി അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതാണ് അതിനാൽ എല്ലാ നിർദ്ദേശങ്ങളും പരീക്ഷണാത്മകമായിരിക്കണം പഠിതാവ് ഒരു ഭാഗഭാക്കാകുകയും അതിനാൽ അത് പരിചയിച്ചറിയുകയും ചെയ്യുന്നു പ്രബോധനത്തോടുള്ള പരീക്ഷണാത്മക സമീപനം എന്താണ് എല്ലാ നിർദ്ദേശങ്ങളും പരീക്ഷണാത്മകമായിരിക്കണം എങ്കിൽ പ്രബോധനത്തോടുള്ള പരീക്ഷണാത്മക സമീപനം എന്ന് ഞങ്ങൾ എന്തിനെയാണ് വിളിക്കുന്നത് ഈ സമീപനത്തിന്റെ അടിസ്ഥാനമായി ഉപയോഗിക്കുന്ന അനുഭവത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ചില സവിശേഷതകൾ ഉണ്ട് ഞങ്ങൾ മുന്നോട്ടുപോവുമ്പോൾ അവ വിശദീകരിക്കും അടിസ്ഥാനപരമായി പരീക്ഷണാത്മക സമീപനം പഠിതാവിനെ കേന്ദ്രീകരിച്ചാണെന്ന് പറയുന്നു തന്റെ അനുഭവത്തിന്റെ സജീവ പരസ്പരാലോചന നടത്തുന്നവനായി പഠിതാവ് യഥാർത്ഥ സിദ്ധാന്തത്തിൽ അനുഭവം തികച്ചും ഓപ്പൺ എൻഡഡ് ആകാം ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണ് പഠിതാവ് തിരഞ്ഞെടുക്കുന്നതെന്ന് ഗണ്യമായ വ്യാപ്തി ഉണ്ട് തന്റെ അനുഭവത്തിന്റെ സജീവ പരസ്പരാലോചനകൾ എന്ന നിലയിൽ പഠിതാവ് ആധികാരിക പഠന അനുഭവം സ്വയം ദിശ തീരുമാന ചോയ്സുകൾ ഫീഡ്ബാക്ക് എന്നിവ പ്രബോധനത്തോടുള്ള പരീക്ഷണാത്മക സമീപനം എന്ന് പൊതുവായി വിളിക്കപ്പെടുന്ന ഒന്നിന്റെ സവിശേഷതകളാണ് അല്ലെങ്കിൽ ഒരു സാധാരണ അർത്ഥത്തിൽ ഞങ്ങൾ അനുഭവം എടുക്കുകയാണെങ്കിൽ എല്ലാ നിർദ്ദേശങ്ങളും പരീക്ഷണാത്മകമാണ് എന്നാൽ നിർദ്ദേശങ്ങളോടുള്ള പരീക്ഷണാത്മക സമീപനത്തെ മറ്റ് രീതികളിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ചില സവിശേഷതകൾ ഉണ്ട് പഠിതാവ് ഇവിടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അവൻ അനുഭവം ചർച്ച ചെയ്യുക മാത്രമല്ല സ്വയം സംവിധാനം ചെയ്ത രീതിയിലാണ് അവൻ പഠനം നടത്തുന്നത് ഒപ്പം അനുഭവത്തിൽ ഈ തീരുമാനങ്ങളുടെ അനന്തരഫലങ്ങളും ഫീഡ്ബാക്കിനെ അതിജീവിക്കുന്ന നിരവധി തീരുമാന ചോയ്സുകൾ ഉണ്ട് പ്രബോധനത്തോടുള്ള പരീക്ഷണാത്മക സമീപനം എന്നറിയപ്പെടുന്നതിന്റെ സവിശേഷതകളിൽ ചിലത് ഇവയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിലേയ്ക്കുള്ള പരീക്ഷണാത്മക പഠന സിദ്ധാന്തത്തിന്റെ വേരുകൾ ജോൺ ഡേവിയുടേതാണ് പരീക്ഷണാത്മക സമീപനങ്ങളെക്കുറിച്ച് അക്കാലം വരെ ലഭ്യമായ എല്ലാ ഗവേഷണങ്ങളും സമന്വയിപ്പിച്ച കോൾബിന്റെ സ്വാധീനശക്തിയാണ് പ്രധാന ഊന്നൽ അതുവരെ ലഭ്യമായ സിദ്ധാന്തങ്ങളുടെ എല്ലാ ദാർശനിക വിവക്ഷകളുടെയും സാരാംശം അദ്ദേഹം കൈക്കൊണ്ടു തുടർന്ന് അദ്ദേഹം സ്വന്തം ചട്ടക്കൂടിൽ നിന്നും പുറത്തിറങ്ങി അതിനെ അദ്ദേഹം പരീക്ഷണാത്മക പഠനം എന്ന് വിളിച്ചു അനുഭവം പഠനത്തിന്റെയും വികസനത്തിന്റെയും ഉറവിടമായി 4 ഘട്ട ചാക്രിക മാതൃക അദ്ദേഹം നിർദ്ദേശിച്ചു ഇത് ആരംഭിക്കുന്നത് ഒരു പ്രത്യക്ഷമായ അനുഭവത്തിലൂടെയാണ് പഠിതാവ് പരിജ്ഞാനം പ്രതിബിംബിക്കുന്ന ദർശനം പ്രത്യക്ഷമായ അനുഭവത്തിന് വിധേയനായ ശേഷം പഠിതാവ് ആ അനുഭവത്തെ പ്രതിഫലിപ്പിക്കുന്നു പ്രതിഫലന നിരീക്ഷണം അതിനുശേഷം പഠിതാവ് ആശയം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു സംക്ഷിപ്തമായ ആശയം ഈ സംക്ഷിപ്ത സങ്കല്പനാത്മകതയെ അടിസ്ഥാനമാക്കി പഠിതാവ് കൂടുതൽ പരീക്ഷണം നടത്തുന്നു സജീവ പരീക്ഷണം ഇത് മറ്റൊരു പ്രത്യക്ഷമായ അനുഭവത്തിലേക്ക് നയിക്കുന്നു വീണ്ടും പ്രതിഫലന നിരീക്ഷണം ഭ്രമാത്മകവൽക്കരണം കൂടുതൽ പരീക്ഷണം അതിനാൽ ചാക്രികമായ രീതിയിൽ പഠിതാവ് പഠനത്തിന്റെ ഈ 4 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു ഇത് കോൾബിന്റെ പരീക്ഷണാത്മക പഠന മാതൃകയുടെ ഉള്ളടക്കമാണ് പക്ഷേ ഈ മാതൃക തികച്ചും സംക്ഷിപ്തതലത്തിലാണ് ഒരു നിർദ്ദിഷ്ട പ്രോഗ്രാമിൽ ആളുകൾ ഈ മോഡൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നു ഈ ബുദ്ധിമുട്ടുകൾ കോൾബിന്റെ മോഡലിനെ വിമർശിക്കുന്നതിനും കാരണമായി പൊതുവേ പരീക്ഷണാത്മക സമീപനത്തെയും വിമർശിക്കുന്നു ഒരു പ്രധാന കാര്യം ആ അനുഭവവും അനുഭവത്തിന്റെ പ്രതിഫലനവും ഭംഗിയായി വിഭജിക്കാനാവില്ല എന്നതാണ് ഒരു നിശ്ചിത സമയം വരെ അത് അനുഭവം മാത്രമാണ് അതിനുശേഷം അത് പ്രതിഫലനമാണ് പലപ്പോഴും അനുഭവവും പ്രതിഫലനവും നിലനിൽക്കുന്നു അതിനാൽ അവയെ പഠന ചക്രത്തിലെ രണ്ട് വ്യത്യസ്ത പ്രത്യേക ഘട്ടങ്ങളായി കണക്കാക്കാൻ കഴിയില്ല അത് വിമർശനത്തിന്റെ ഒരു പോയിന്റാണ് അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എല്ലായ്പ്പോഴും സംഭവിക്കേണ്ടതില്ല മാത്രമല്ല ഓരോ പഠിതാവിനും അങ്ങനെയാകണമെന്നില്ല ഒരു പഠിതാവിന് ഒരു അനുഭവം ഉണ്ടായിരിക്കാം പക്ഷേ ആ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പഠിതാവിന് ആവശ്യമോ പ്രചോദനമോ ഉണ്ടാകണമെന്നില്ല ഓരോ പഠിതാവും ഒരേ രീതിയിൽ ചിന്തിക്കേണ്ടതില്ല അതിനാൽ അനുഭവം പര്യാലോചിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന പഠനം വ്യത്യസ്ത ആളുകൾക്ക് തികച്ചും വ്യത്യസ്തമായിരിക്കും എന്നതാണ് ആശയം കൂടാതെ അനുഭവം വീണ്ടും പറയുന്നത് നയതന്ത്രപരമാണ് ഞങ്ങൾ പറയുന്ന കഥകൾ ഞങ്ങളുടെ ഉദ്ദേശ്യത്തിനനുസരിച്ച് മാറുന്നു മനഃപൂർവ്വം ഞങ്ങൾ നുണ പറയാൻ ശ്രമിക്കുന്നു എന്നല്ല പക്ഷേ പിന്നീടുള്ള ഘട്ടത്തിൽ മനസ്സ് അതിന്റെ അനുഭവത്തിന്റെ സ്വന്തം പതിപ്പ് ഉണ്ടാക്കുന്നു പഠിതാവ് അനുഭവം ഓർമ്മിക്കാനും അതിൽ പ്രതിഫലിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും സാധുവായ ഒരു പര്യാലോചനയായിരിക്കില്ല മാത്രമല്ല അതിന്റെ ഫലമായുണ്ടാകുന്ന പഠനം ശരിക്കും ആധികാരികമല്ലായിരിക്കാം തീർച്ചയായും ആളുകൾ ഇതിനും ഒരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട് പഠിതാക്കളുടെ ഒരു സമൂഹത്തിനുള്ളിൽ പഠന പ്രക്രിയ നടക്കണം അനുഭവങ്ങൾ പങ്കിടുമ്പോഴും കമ്മ്യൂണിറ്റി മോഡിൽ പഠനം നടക്കുമ്പോഴും പഠനം കൂടുതൽ ആധികാരികമാകുമെന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് ഇത് പരീക്ഷണാത്മക പഠനത്തിന്റെ സാമൂഹിക സൃഷ്ടിപരമായ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആ അറിവ് വ്യക്തികൾ നിർമ്മിച്ചതാണെങ്കിലും അത് ഒരു കമ്മ്യൂണിറ്റിയിലും നിർമ്മിക്കപ്പെടുന്നു പഠിതാക്കളുടെ ഒരു സമൂഹത്തിനുള്ളിൽ പഠനം നടക്കുമ്പോൾ അനുഭവങ്ങൾ ആധികാരിക രീതിയിൽ ഓർമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പഠനം ആഴമേറിയതാകാമെന്നും സാമൂഹിക സൃഷ്ടിപരമായ വ്യാഖ്യാനം അനുമാനിക്കുന്നു ഈ വിമർശനങ്ങളെല്ലാം വകവയ്ക്കാതെ പ്രബോധനത്തോട് യുക്തിസഹമായി പ്രവർത്തിക്കാവുന്ന പരീക്ഷണാത്മക സമീപനവുമായി വരാൻ കഴിയും ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും കഴിയും വ്യത്യസ്ത ക്രമീകരണങ്ങളിൽ ആളുകൾ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പരീക്ഷണാത്മക സമീപനം പരീക്ഷിച്ചു ഊപചാരിക എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ ഊപചാരിക മെഡിക്കൽ പ്രോഗ്രാമുകൾ അനൌപചാരിക പ്രോഗ്രാമുകൾ കമ്മ്യൂണിറ്റി ലേണിംഗ് സെന്ററുകൾ മറ്റ് പല സന്ദർഭങ്ങളിലും ഇത് പരീക്ഷിച്ചു ആധുനിക എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന്റെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനായി പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനവും പ്രശ്നഅധിഷ്ഠിത സമീപനവും മുമ്പത്തെ രണ്ട് യൂണിറ്റുകളിൽ ഞങ്ങൾ ചർച്ചചെയ്തത് പരമ്പരാഗത അധ്യാപന രീതികളിലേക്ക് വിപുലമായി സമന്വയിപ്പിക്കുന്നു ആധുനിക എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ശരിക്കും നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് മുമ്പത്തെ യൂണിറ്റിലും ഞങ്ങൾ കണ്ടു എൻബിഎ രൂപീകരിച്ച പല പിഒകളെയും പരമ്പരാഗത അധ്യാപന രീതികളായ പരമ്പരാഗത എഞ്ചിനീയറിംഗ് കോഴ്സുകളാൽ അഭിസംബോധന ചെയ്യാൻ കഴിയില്ല ആവശ്യമായ പ്രൊഫഷണൽ കഴിവുകൾ പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച് പഠിതാക്കൾക്ക് നൽകാനാവില്ല ഈ വെല്ലുവിളികളെ നേരിടാൻ ആളുകൾ വ്യത്യസ്ത സമീപനങ്ങളിൽ പരീക്ഷണം നടത്തുന്നു ഈ മൂന്ന് പരീക്ഷണാത്മക സമീപനം പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള സമീപനം പ്രശ്ന അധിഷ്ഠിത സമീപനം സമീപ വർഷങ്ങളിൽ വളരെ പ്രചാരത്തിലുണ്ട് തീർച്ചയായും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ പ്രബോധനത്തോടുള്ള പരീക്ഷണാത്മക സമീപനം നടപ്പിലാക്കുമ്പോൾ ശരിക്കും എന്താണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ അനുഭവപരമായ തെളിവുകളുടെ ആപേക്ഷിക കുറവുണ്ട് അത്തരമൊരു സമീപനം തികച്ചും ഫലപ്രദമാണ് എന്നതിന് ധാരാളം തെളിവുകൾ ഉണ്ട് എന്നിരുന്നാലും പ്രത്യേകിച്ചും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ശരിക്കും പ്രവർത്തിക്കുന്നവയെക്കുറിച്ച് ശക്തമായ അനുഭവേദ്യ ഡാറ്റ നൽകുന്ന നിയന്ത്രിത പരീക്ഷണങ്ങൾ ഇതുവരെ ലഭ്യമല്ല പ്രബോധനത്തോടുള്ള പരീക്ഷണാത്മക സമീപനം പരീക്ഷിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് വീണ്ടും പ്രബോധനത്തോടുള്ള പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം പ്രബോധനത്തോടുള്ള പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം എന്നിവയെപ്പോലെ പരീക്ഷണാത്മക സമീപനം എന്ന പദം വിവിധ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നു നിർദ്ദേശങ്ങളോടുള്ള പരീക്ഷണാത്മക സമീപനമായി റിപ്പോർട്ടുചെയ്ത ചില കേസ് പഠനങ്ങൾ കാണുമ്പോൾ അവ മിക്കവാറും പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനങ്ങളായി കാണപ്പെടുന്നു അതിനാൽ ഈ പദം അല്പം അവ്യക്തമായ അർത്ഥത്തിലോ അല്ലെങ്കിൽ അല്പം വികസിപ്പിച്ച അർത്ഥത്തിലോ രചനകളിൽ റിപ്പോർട്ടുചെയ്ത ധാരാളം കേസുകളിൽ ഉപയോഗിക്കുന്നു വാസ്തവത്തിൽ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം അനുഭവപരമായ സമീപനം ഇവയെല്ലാം പരസ്പരം മാറ്റത്തക്ക രീതിയിൽ ഉപയോഗിക്കുന്നതായി തോന്നുന്നു അവർ നിരവധി സവിശേഷതകൾ പങ്കിടുന്നുണ്ടെങ്കിലും എന്നാൽ അവ വ്യത്യസ്തമായ സമീപനങ്ങളാണ് അക്കാലം വരെ ലഭ്യമായ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി അതുവരെ ലഭ്യമായ അനുഭവസാക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി അക്കാലം വരെ രചനകളിൽ റിപ്പോർട്ടുചെയ്ത കേസ് പഠനങ്ങളെ അടിസ്ഥാനമാക്കി പ്രബോധനത്തോടുള്ള പരീക്ഷണാത്മക സമീപനം രൂപപ്പെടുത്തുന്നതിനായി ലിൻഡ്സിയും ബെർജറും മൂന്ന് നിർദ്ദേശകമായ തത്ത്വങ്ങൾ അവതരിപ്പിക്കുന്നു അവ അനുസരിച്ച് സാഹിത്യത്തിൽ ഉയർന്നുവരുന്ന മിക്ക ആശങ്കകളെയും പരിഹരിക്കാൻ ഈ തത്ത്വങ്ങൾക്ക് കഴിയും ഇത് റീജലൂത്തും കാർ ചെൽമാനും എഡിറ്റുചെയ്ത ഇൻസ്ട്രക്ഷണൽ തിയറികളിലും മോഡലുകളിലും ലഭ്യമാണ് ഈ അവതരണം ആ മാതൃകയെ അടുത്തറിയുന്നു പരീക്ഷണാത്മക സമീപനത്തിന് മൂന്ന് സാർവത്രിക തത്ത്വങ്ങളുണ്ട് അനുഭവം രൂപപ്പെടുത്തുക അനുഭവം സജീവമാക്കുക അനുഭവത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുക ഓരോ തത്ത്വത്തിലും ഉപതത്ത്വങ്ങളുണ്ട് തുടർന്ന് നിർദ്ദിഷ്ട സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി വ്യത്യാസങ്ങളുണ്ട് ആദ്യം നമുക്ക് അനുഭവം രൂപപ്പെടുത്താം അനുഭവം രൂപപ്പെടുത്തുന്നതിലൂടെ ഞങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് പരീക്ഷണാത്മക പഠനത്തിന്റെ പരമ്പരാഗത സിദ്ധാന്തത്തിൽ പഠിതാവ് ചർച്ച ചെയ്ത അനുഭവം തികച്ചും അവ്യക്തമായിരുന്നു അനുഭവം തിരഞ്ഞെടുക്കുന്നതിൽ പഠിതാവിന് താരതമ്യേന വലിയ വ്യാപ്തി ഉണ്ടായിരുന്നു എന്നാൽ ഒരു ഔദ്യോഗിക പ്രോഗ്രാമിൽ വളരെ കാര്യക്ഷമമായിരിക്കാൻ കഴിയണമെന്നില്ള അനുഭവം രൂപപ്പെടുത്തുന്നത് അർത്ഥമാക്കുന്നത് അനുഭവത്തിനായി യുക്തിസഹമായി ശാന്തമായ അതിരുകൾ സ്ഥാപിക്കുകയും അനുഭവത്തിന്റെ സന്ദർഭം നിർവചിക്കുകയും ചെയ്യുക അനുഭവം വളരെ തുറന്നതും അവ്യക്തവുമാകുന്നതിനു പകരം ഫ്രെയിംഡ് ആണ് അനുഭവത്തിന് ചുറ്റും ഒരു ഫ്രെയിം ഇടുക അത് പ്രക്രിയ കാര്യക്ഷമമാക്കാൻ ആവശ്യമാണ് പഠിതാവിന്റെ ശ്രദ്ധ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന് അനുഭവത്തിന്റെ ഈ ഫ്രെയിമിംഗ് ആവശ്യമാണ് ഒരു ഊപചാരിക പ്രോഗ്രാമിൽ ഇത് വളരെ പ്രധാനമാണ് കാരണം ഒരു ഊപചാരിക പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് മുഴുവൻ ഇൻസ്ട്രക്ഷൻ ഷെഡ്യൂളും കർശനമായി ഓർഗനൈസുചെയ്ത രീതിയിൽ ഉണ്ട് സമയം തിരിച്ച് ഷെഡ്യൂൾ തിരിച്ച് കോഴ്സുകളുടെ എണ്ണം ഇവയെല്ലാം തികച്ചും ന്യായമായതും കർശനവുമായ ഒരു ഷെഡ്യൂൾ പിന്തുടരുന്നു അതിനാൽ അനുഭവത്തിലേക്ക് വളരെയധികം തുറന്നത് അനുവദിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു ഊപചാരിക പ്രോഗ്രാമിൽ പരീക്ഷണാത്മക സമീപനം ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ അനുഭവം രൂപപ്പെടുത്തേണ്ടതുണ്ട് യഥാർത്ഥ സങ്കല്പം അത്തരം പരിമിതികൾ ഏർപ്പെടുത്തിയിട്ടില്ല ഒരു ഊപചാരിക എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഏത് തരത്തിലുള്ള അനുഭവങ്ങൾ അനുവദനീയമാണ് എന്നതിന് ചില പരിമിതികൾ നൽകേണ്ടതുണ്ട് അനുഭവം രൂപപ്പെടുത്തുന്നത് അനുഭവത്തെക്കുറിച്ചുള്ള പഠിതാവിന്റെ വീക്ഷണത്തെയും അവൻ അതിൽ എങ്ങനെ ഏർപ്പെടുന്നു എന്നതിനെയും സ്വാധീനിക്കുന്നു കാരണം ഓരോ അനുഭവവും ഒന്നിലധികം വീക്ഷണകോണുകളിൽ നിന്ന് കാണാൻ കഴിയും ഈ അനുഭവം രൂപപ്പെടുത്തുന്നത് തുടർന്നുള്ള പുനരാലോചനയിലും ഒരു പ്രധാന പങ്ക് വഹിക്കും അതിനാൽ ഇത് പഠനത്തെയും സ്വാധീനിക്കും നിലവിലെ സന്ദർഭത്തിന് ഏറ്റവും പ്രസക്തമായ മുൻ അനുഭവത്തിന്റെ ഘടകങ്ങളിൽ പഠിതാവിനെ ഫോക്കസ് ചെയ്യുന്നതിന് ഫ്രെയിമിംഗ് സഹായിക്കുന്നു അത് കണക്കിലെടുക്കുമ്പോൾ നിലവിൽ പഠിതാവ് കടന്നുപോകുന്ന ഒരു അനുഭവമുണ്ട് മുൻ അനുഭവത്തിന്റെ ഏത് ഘടകങ്ങളാണ് ഏറ്റവും പ്രസക്തമായത് ഫ്രെയിമിംഗ് ഇല്ലെങ്കിൽ നിലവിലെ അനുഭവത്തിന്റെ മുമ്പത്തെ അനുഭവത്തിൽ നിന്നുള്ള ഘടകങ്ങൾ അനുസ്മരിക്കാൻ പഠിതാവിന് വളരെയധികം പ്രയാസമുണ്ടാകാം അത് ഏറ്റവും പ്രസക്തവും നിലവിലെ അനുഭവത്തെ ചിന്തിക്കുന്നതിന് ഏറ്റവും സഹായകരവുമാണ് അതിനാൽ ഫ്രെയിമിംഗ് തികച്ചും സഹായകരമാണ് ഇതിന് വീണ്ടും മൂന്ന് സാർവത്രിക ഉപ രീതികളുണ്ട് പ്രബോധന ലക്ഷ്യങ്ങൾ തെര്യപ്പെടുത്തുക വിലയിരുത്തൽ മാനദണ്ഡങ്ങൾ തെര്യപ്പെടുത്തുക ഒപ്പം സാമൂഹിക ഘടനയും പഠിതാക്കളുടെ പ്രതീക്ഷിക്കുന്ന പെരുമാറ്റവും സ്ഥാപിക്കുക ആദ്യത്തേത് പ്രബോധന ലക്ഷ്യങ്ങളാണ് ഇത് പ്രബോധന ലക്ഷ്യങ്ങളാണെന്നും ഇത് പഠന ഫലങ്ങളേക്കാളും കോഴ്സ് ഫലങ്ങളേക്കാളും കൂടുതലാണെന്നും ശ്രദ്ധിക്കുക പരീക്ഷണാത്മക സമീപനം പഠിതാവിന് ഗണ്യമായ സ്വാതന്ത്ര്യം നൽകുന്നതിനാൽ അനുഭവത്തിന്റെ മൊത്തത്തിലുള്ള സന്ദർഭം ഞങ്ങൾ പഠിതാക്കളുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട് തീർച്ചയായും ഞങ്ങൾ കോഴ്സ് ഫലങ്ങൾ തെര്യപ്പെടുത്തുന്നു അത് വളരെ അത്യാവശ്യമാണ് എന്നാൽ അതിനപ്പുറം ആ അനുഭവത്തിൽ ഏർപ്പെടാനുള്ള കാരണവും ലക്ഷ്യവും ഞങ്ങൾ പഠിതാക്കളെ അറിയിക്കുന്നു എന്തുകൊണ്ടാണ് അനുഭവം ആ രീതിയിൽ രൂപപ്പെടുത്തിയത് ആ അനുഭവത്തിൽ ഏർപ്പെടാനുള്ള കാരണം എന്താണ് ആവശ്യകത എന്താണ് ഇത് പ്രവർത്തനങ്ങൾക്ക് അനുഭവത്തിനിടയിൽ സന്ദർഭം നൽകുന്നു പഠിതാക്കൾ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു ഈ ആശയവിനിമയം ആ പ്രവർത്തനങ്ങൾക്കുള്ള സന്ദർഭം നൽകുന്നു കാരണം ഒരേ പ്രവർത്തനം വ്യത്യസ്ത അനുഭവങ്ങളിലേക്കും വ്യത്യസ്ത പഠന ഫലങ്ങളിലേക്കും നയിച്ചേക്കാംഅത് ആ അനുഭവങ്ങളെ പഠിതാവ് നോക്കുന്ന വീക്ഷണകോണിനെ ആശ്രയിച്ചിരിക്കുന്നു ഒരു ലളിതമായ ഉദാഹരണമായി ഒരു പ്രാദേശിക കമ്മ്യൂണിറ്റിയിലെ വേഗം കേടുവരുന്ന കാർഷിക ഉൽപന്നങ്ങളുടെ നിർമ്മാതാക്കളുമായി ഒരു വിദ്യാർത്ഥി സംഘം പരസ്പരം പ്രവർത്തനം നടത്തുന്നുവെന്ന് നമുക്ക് പറയാം ഒരുപക്ഷേ ചിലതരം പഴങ്ങൾ അല്ലെങ്കിൽ വേഗം കേടുവരുന്ന ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇതുപോലുള്ള ഒരു അനുഭവം പഠിതാക്കൾക്ക് നൽകുന്നതിന്റെ ഉദ്ദേശ്യം സപ്ലൈ ചെയിൻ മാനേജുമെന്റ് സിസ്റ്റത്തിന്റെ രൂപകൽപ്പനയ്ക്കുള്ള ആവശ്യകതകൾ പഠിക്കുക എന്നതാണ് അങ്ങനെയാണെങ്കിൽ പഠിതാക്കൾ അനുഭവം നോക്കുന്ന രീതി അവർ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ശേഖരിക്കാൻ ശ്രമിക്കുന്ന വിവരങ്ങൾ എന്നിവയെല്ലാം വ്യത്യസ്തമായിരിക്കും മറുവശത്ത് നിർദ്ദിഷ്ട സാങ്കേതികവിദ്യകളുടെ ഉപയോഗം ഉദാഹരണത്തിന് കോൾഡ് സ്റ്റോറേജുകളുടെ കുറഞ്ഞ ചിലവ് പതിപ്പ് മനസിലാക്കുകയാണെങ്കിൽ ഉൽപാദന പ്രവർത്തനങ്ങളിൽ മുഴുവൻ അനുഭവവും ഒരു പുതിയ നിറം നേടും അതിനാൽ അനുഭവത്തിൽ ഏർപ്പെടാനുള്ള കാരണവും ലക്ഷ്യവും ആശയവിനിമയം നടത്തേണ്ടത് ആവശ്യമാണ് പരമ്പരാഗത മാതൃകയിൽ ഇത് ഊന്നിപ്പറഞ്ഞില്ല എന്നാൽ ഒരു ഔപചാരിക പ്രോഗ്രാമിൽ ഞങ്ങൾ പരീക്ഷണാത്മക സമീപനം അവതരിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അധിക വിവരങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ പഠനം പ്രത്യേകിച്ചും കേന്ദ്രീകൃതമായ രീതിയിൽ സംഭവിക്കുകയും അനുഭവം കോഴ്സ് ഫലങ്ങളുടെ നേട്ടത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നു പ്രബോധന ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നു ഞങ്ങൾ വിലയിരുത്തൽ മാനദണ്ഡങ്ങളും ആശയവിനിമയം നടത്തേണ്ടതുണ്ട് കാരണം ഇത് ഏത് നിർദ്ദേശ മാതൃകയിലും വിലയിരുത്തൽ വളരെ വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമാണെന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു പഠന ഫലങ്ങളുമായി വിന്യസിക്കണം പക്ഷേ അനുഭവത്തിൽ നിന്നുള്ള പഠനം വിലയിരുത്തേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ പരീക്ഷണാത്മക സമീപനത്തിന്റെ കാര്യത്തിൽ വിലയിരുത്തലിന്റെ വ്യാപ്തി വിപുലീകരിക്കേണ്ടത് ആവശ്യമായി വന്നേക്കാം അന്തിമഫലമോ പരിണതഫലമോ മാത്രമല്ല പഠിതാക്കൾക്ക് ഒരു റിയലിസ്റ്റിക് ഫീഡ്ബാക്ക് നൽകുന്നതിന് ഇൻസ്ട്രക്ടർ മാത്രമല്ല ബന്ധപ്പെട്ട മറ്റ് തല്പരകക്ഷിളെയും വിലയിരുത്തുന്നതിന് ക്ഷണിക്കേണ്ടതുണ്ട് ആ വിലയിരുത്തൽ ഇതുപോലെയാകും എന്ന് മുൻകൂട്ടി വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുക ഇത് അനുഭവത്തിൽ നിന്നുള്ള പഠനത്തെ സാരമായി ബാധിക്കും മുമ്പത്തെ ഉദാഹരണത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരിക്കൽ വിദ്യാർത്ഥികൾ ഒരു പരിഹാരം നിർദ്ദേശിച്ചാൽ പരിഹാരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കായി യഥാർത്ഥ അന്തിമ ഉപയോക്താക്കളെ ക്ഷണിക്കുന്നത് മൂല്യവത്തായിരിക്കാം ഇത് മുൻകൂട്ടി പഠിതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതിലൂടെ വിലയിരുത്തലിനായി ഞങ്ങൾ പഠിതാക്കൾക്കും ഒരു സന്ദർഭം നൽകുന്നു ഉദ്ദേശിച്ച അന്തിമ ഉപയോക്താക്കൾ പരിഹാരം യഥാർത്ഥത്തിൽ വിലയിരുത്തുമെന്ന് അവർക്കറിയാം അവർ അനുഭവത്തെ നോക്കുന്ന രീതി അനുഭവത്തിൽ നിന്ന് അവർ നേടുന്ന പഠനം എന്നിവയെല്ലാം ഇതിനെ സ്വാധീനിക്കും അതിനാൽ ഞങ്ങൾ വിലയിരുത്തലിന്റെ വ്യാപ്തി വിപുലീകരിക്കേണ്ടതുണ്ട് ഇത് ഗ്രേഡുകളിലേക്ക് നേരിട്ട് നയിച്ചേക്കില്ല പക്ഷേ അതിന് ഒരു ബെയറിംഗ് ഉണ്ടായിരിക്കണം തുടർന്ന് സാമൂഹിക ഘടനയും പഠിതാക്കളുടെ പ്രതീക്ഷിച്ച പെരുമാറ്റവും സ്ഥാപിക്കുക പഠിതാവിന് ഗണ്യമായ സ്വാതന്ത്ര്യം ഉള്ളതിനാൽ ഞങ്ങൾ ഔപചാരികമായി വിദ്യാർത്ഥിയുമായി ഇൻസ്ട്രക്ടറുമായുള്ള ബന്ധം സ്ഥാപിക്കണം അനുഭവം പുറം ലോകത്തെ ഉൾക്കൊള്ളുന്നുവെങ്കിൽ വിദ്യാർത്ഥിയും ഇൻസ്ട്രക്ടറും തമ്മിലുള്ള ബന്ധവും അവരുടെ സമപ്രായക്കാരുമായും പുറം ലോകവുമായും ഉള്ള ബന്ധം എന്താണ് അത് പ്രത്യേകിച്ചും പ്രധാനമാണ് കാരണം അവിടെയുള്ള ആളുകളുമായി സംവദിക്കാൻ വിദ്യാർത്ഥികൾ ശരിക്കും പുറം ലോകത്തേക്ക് പോകുകയാണെങ്കിൽ നന്നായി സംവിധാനം ചെയ്തതും ഘടനാപരവുമായ വരികളിലൂടെയാണ് ആശയവിനിമയം നടക്കുന്നതെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ നാം ശരിയായ സാമൂഹിക ഘടന സ്ഥാപിക്കണം ഈ ബന്ധങ്ങൾ പ്രചോദനം യഥാർത്ഥ അനുഭവം അനുഭവത്തിന്റെ ഫലമായുണ്ടാകുന്ന പഠനം എന്നിവയെ സ്വാധീനിക്കുന്നു രണ്ടാമത്തെ സാർവത്രിക തത്വം അനുഭവം സജീവമാക്കുക എന്നതാണ് പുതിയ അനുഭവം സൃഷ്ടിക്കുന്നതിനുപുറമെ മുൻകാല അനുഭവത്തിന്റെ ഉപയോഗവും ഇത് ഏറെക്കുറെ മെറിലിന്റെ ആക്റ്റിവേഷൻ തത്ത്വവുമായി യോജിക്കുന്നു ഉൾപ്പെടുന്നു ആധികാരിക അനുഭവം ആയിരിക്കണം എന്നതാണ് പ്രധാന സവിശേഷത പഠിതാക്കൾ തീരുമാനമെടുക്കുന്നതിന് വ്യാപ്തി ഉണ്ടായിരിക്കണം കൂടാതെ അനുഭവത്തിന് പ്രശ്ന ദിശാബോധം ഉണ്ടായിരിക്കണം മാത്രമല്ല സങ്കീർണ്ണതയുടെ നിലയോ അനുഭവത്തിന്റെ പ്രയാസമോ ശ്രദ്ധാപൂർവ്വം വിഭജിക്കണം അതിനാൽ അനുഭവത്തിന്റെ സങ്കീർണ്ണത മറ്റൊരു പ്രധാന ഉപതത്ത്വമാണ് നിർദ്ദേശ സന്ദർഭം കൂടുതൽ ആധികാരികമാകുമ്പോൾ പഠനം മെച്ചപ്പെടുന്നു അനുഭവത്തിലെ ടാസ്ക്കുകളും സന്ദർഭവും പഠിതാക്കൾക്ക് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടിവരുന്ന ടാസ്ക്കുകൾക്കും സന്ദർഭത്തിനും സമാനമായിരിക്കണം അതാണ് അനുഭവത്തിൻ്റെ ആധികാരികത എന്നതിന്റെ അർത്ഥം സമാനമായ വൈജ്ഞാനിക തലങ്ങൾ വിജ്ഞാന വിഭാഗങ്ങളുടെ സമാന സ്വഭാവം സമാനമായ പരിമിതികൾ സന്ദർഭവും സമാനമാണ് ചുമതലയും സമാനമാണ് പക്ഷേ സാധ്യതയിൽ സങ്കീർണ്ണത കുറവായിരിക്കാം പക്ഷേ അവശ്യ സ്വഭാവം തികച്ചും സമാനമാണ് ഇത് പഠനത്തെ കൂടുതൽ മികച്ചതാക്കുന്നു യഥാർത്ഥ അനുഭവം അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ആവശ്യമെങ്കിൽ സിമുലേഷൻ ഉപയോഗിക്കുക ഉദാഹരണത്തിന് യഥാർത്ഥ അനുഭവം അപകടകരമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നത് ഉൾക്കൊള്ളുന്നുവെങ്കിൽ വിദ്യാർത്ഥികൾ ആ പരിതസ്ഥിതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നമുക്ക് സിമുലേഷൻ മോഡലുകൾ ഉപയോഗിക്കാം സാഹചര്യം അനുഭവം പഠിതാക്കൾക്ക് തീരുമാനങ്ങളെടുക്കാൻ കഴിയുന്ന തരത്തിൽ ആയിരിക്കണം തിരഞ്ഞെടുക്കലുകളുണ്ട് ഈ തീരുമാനങ്ങളുടെ അനന്തരഫലങ്ങൾ വിദ്യാർത്ഥി അനുഭവിക്കണം തീരുമാനങ്ങൾക്ക് സാധ്യതയുണ്ട് തീരുമാനങ്ങൾക്ക് ആധികാരിക ഫലങ്ങൾ ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് അനുഭവം ഒരു കമ്മ്യൂണിറ്റി പ്രശ്നം പരിഹരിക്കുന്നുവെങ്കിൽ ഒരുപക്ഷേ ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതാകാം പഠിതാക്കൾ ഉപയോഗിക്കേണ്ട വസ്തുക്കൾ പരിഹാരത്തിന്റെ വിശ്വാസ്യത ചെലവ് എന്നിവ സംബന്ധിച്ച് തീരുമാനമെടുക്കണം ഈ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കി അവർ ഒരു പരിഹാരത്തിന് ശ്രമിക്കുമ്പോൾ അവർ എടുത്ത തിരഞ്ഞെടുപ്പുകളെ അടിസ്ഥാനമാക്കി ആ പരിഹാരം വ്യത്യാസപ്പെടും പഠിതാക്കൾ ഇത് പരിചയിക്കണം അതായത് പഠിതാക്കൾ അവരുടെ തീരുമാനങ്ങൾക്ക് ഒരു അനന്തരഫലമുണ്ടെന്ന് കാണുകയും അവർ ആ പരിണതഫലങ്ങൾ അനുഭവിക്കുകയും വേണം ഈ തീരുമാനങ്ങൾക്ക് ആധികാരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കണം കൂടാതെ ഈ ആധികാരിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് വിദ്യാർത്ഥികളുടെ പഠനത്തെ സഹായിക്കും അനുഭവം സാധ്യമായ പരിധി വരെ പ്രശ്നവുമായി ക്രമീകരണമുള്ളതായിരിക്കണം ഇത് വീണ്ടും മെറിലിന്റെ പ്രശ്ന കേന്ദ്രീകൃത തത്ത്വവുമായി പൊരുത്തപ്പെടുന്നു അനുഭവപരിചയ പഠനത്തിൽ സാധാരണയായി ഒരു പ്രധാന വിഷയം അല്ലെങ്കിൽ ഒരു പ്രധാന പ്രശ്നം ഉൾപ്പെടുന്നു അത് വിശകലനം ചെയ്യുകയും ഒരു നിഗമനത്തിലെത്തുകയും വേണം അനുഭവം സാധാരണയായി ഒരു പ്രത്യേക പ്രശ്നത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നു അനുഭവത്തിനിടയിലെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും പിന്നീട് ലഭിച്ച പ്രതിഫലനവും പ്രതികരണവും പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംഭവിക്കുന്നത് ഇത് പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രശ്നങ്ങൾ പ്രശ്നം ഉയർത്തുന്ന ക്രമീകരണം എന്നിവ വ്യത്യാസപ്പെടാം പക്ഷേ അനുഭവത്തിന് ഒരു പ്രശ്ന ക്രമീകരണം ഉണ്ടായിരിക്കണം തുടർന്ന് അവസാന ഉപതത്ത്വം അനുഭവം ശരിക്കും വെല്ലുവിളിയായിരിക്കണം എന്നതാണ് അനുഭവം സങ്കീർണ്ണമോ മതിയായതോ ആയിരിക്കണം അതുവഴി ഇത് വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളിയാക്കുന്നു ഇത് വളരെ എളുപ്പമാണെങ്കിൽ പഠനം വിദ്യാർത്ഥികൾക്ക് ശരിക്കും രസകരമാകാൻ സാധ്യതയില്ല മറുവശത്ത് വിദ്യാർത്ഥികൾ സ്വിച്ച് ഓഫ് ആകുന്നത്ര ബുദ്ധിമുട്ടുള്ളതോ സങ്കീർണ്ണമോ ആയിരിക്കരുത് അവർ നിഷേധാത്മകമായി പ്രേരിതരാകുന്നു ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല ഇത് വളരെ ബുദ്ധിമുട്ടാണ് നേരത്തെയുള്ള പിൻവലിക്കൽ സംഭവിക്കരുത് ശരിയായ തലത്തിൽ വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുക എന്നിരുന്നാലും ശരിയായ നിലയിലുള്ളത് തിരഞ്ഞെടുക്കുന്നത് വിധിന്യായമാണ് പരിശീലകന് ഈ വിധി പറയേണ്ടതുണ്ട് കാരണം പരീക്ഷണാത്മക സമീപനം പഠന പരാജയങ്ങളെ പോലും വിലമതിക്കുന്നുണ്ട് പരീക്ഷണാത്മക സമീപനത്തിന്റെ വളരെ സുപ്രധാനമായ സവിശേഷതയാണിത് ഇത് പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിലോ പ്രശ്ന അധിഷ്ഠിത സമീപനത്തിലോ ഞങ്ങൾ കണ്ടെത്തുകയില്ല പരീക്ഷണാത്മക സമീപനത്തിൽ വിജയകരമായ ഫലങ്ങളിലേക്ക് നയിക്കുന്ന അനുഭവങ്ങൾ വിലപ്പെട്ടതാണ് പരാജയങ്ങളിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളും വിലപ്പെട്ടതാണ് പരാജയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ നേടുന്ന പാഠങ്ങളും വിലപ്പെട്ടതാണ് വിദ്യാർത്ഥികൾ എടുക്കുന്ന നിർദ്ദിഷ്ട തീരുമാനങ്ങൾ പരാജയങ്ങളിലേക്ക് നയിച്ചേക്കാം പക്ഷേ ഒരു പഠനമുണ്ട് അത് വിദ്യാർത്ഥികൾ ആ പരാജയങ്ങളിൽ നിന്നും പഠിക്കുന്നു ആ പഠനത്തിലും ഇൻസ്ട്രക്ടർക്ക് താൽപ്പര്യമുണ്ട് പ്രബോധനത്തോടുള്ള പരീക്ഷണാത്മക സമീപനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്വഭാവമാണിത് പക്ഷേ ഇത് സംഭവിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ വേണ്ടത്ര തുറന്നവരായിരിക്കണം പരാജയങ്ങൾ അംഗീകരിക്കാൻ പര്യാപ്തമായ ആത്മവിശ്വാസമുള്ളവരും പരാജയത്തിൽ നിന്ന് പഠിക്കാൻ അവർ ആത്മാർത്ഥതയുള്ളവരുമായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ പിന്തുണയ്ക്കാൻ ഏത് തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ പിന്നീട് കാണുന്നു അതിനാൽ ചിലപ്പോൾ അല്പം ഉയർന്ന തലത്തിലുള്ള ഒരു പ്രശ്നം സജ്ജീകരിക്കാൻ ഇത് ഉപയോഗപ്രദമാകും ഇവയെല്ലാം ഇൻസ്ട്രക്ടർ എടുക്കേണ്ട തീരുമാനങ്ങളാണ് തുടർന്ന് അവസാന തത്ത്വം അനുഭവത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇത് പ്രബോധനത്തോടുള്ള അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിന്റെ പ്രധാന ഘടകമാണ് ഇത് എല്ലാവരും സുപ്രധാനമായി കണക്കാക്കുന്നു ഇത് മെറിലിന്റെ സംയോജന തത്ത്വം പോലെയാണ് പക്ഷേ പ്രതിഫലനത്തിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ധാരണകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന പ്രതിഫലനത്തെ വിലയിരുത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മൂല്യനിർണ്ണയത്തിൽ പ്രയാസമുണ്ട് കൂടാതെ ഇൻസ്ട്രക്ടർമാർ ഈ മുൻതൂക്കം നൽകണം ഒരുപക്ഷേ പ്രതിഫലനം വിലയിരുത്തുന്നതിനായി വിദ്യാർത്ഥികളോടൊപ്പം ഇരുന്ന് അവർ തിരുത്തലുകൾ വികസിപ്പിക്കണം പഠിതാക്കളുടെ അനുമാനങ്ങളെ ആഴത്തിൽ വെല്ലുവിളിച്ച് അധ്യാപകർ ഒരു ഫെസിലിറ്റേറ്ററായി പ്രവർത്തിക്കണം വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുക അതുവഴി ആഴത്തിലുള്ള രീതിയിൽ ആ അനുഭവത്തെക്കുറിച്ച് പ്രതിഫലിപ്പിക്കാൻ പഠിതാക്കൾ നിർബന്ധിതരാകുന്നു ഗ്രൂപ്പ് തലത്തിൽ നിർണായക പ്രതിഫലനം അനുവദിക്കുന്നതും പരാജയങ്ങളിൽ നിന്ന് പഠിക്കുന്നതും പഠിതാക്കളുടെ കമ്മ്യൂണിറ്റിയെ ശക്തിപ്പെടുത്തുക ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വിദ്യാർത്ഥി ഒരു ഒറ്റപ്പെട്ട സന്ദർഭത്തിലാണെങ്കിൽ പരാജയങ്ങൾ അംഗീകരിക്കുന്നതും പരാജയങ്ങളിൽ നിന്ന് പഠിക്കുന്നതും ഒരുവിധം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അനുയോജ്യമായ പഠന കമ്മ്യൂണിറ്റികൾ സൃഷ്ടിക്കുന്നതിലൂടെ പരാജയങ്ങളിൽ നിന്നും പഠിക്കുന്നതിനുള്ള ശക്തമായ ഒരു കേസ് ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും വിദ്യാർത്ഥി സമൂഹത്തിന് പരസ്പരം പിന്തുണയ്ക്കാൻ കഴിയും കൂടാതെ ഫാക്കൽറ്റിയും മുഴുവൻ പ്രക്രിയയെയും പിന്തുണയ്ക്കേണ്ടതാണ് തുടർന്ന് ഗ്രൂപ്പിന് മൊത്തത്തിൽ പരാജയങ്ങളിൽ നിന്നും പഠിക്കാൻ കഴിയും അനുഭവത്തിന്റെ പ്രതിഫലനം പരാജയങ്ങളുടെ കാര്യത്തിൽ പോലും പഠനത്തിലേക്ക് നയിച്ചേക്കാം സാമൂഹിക സൃഷ്ടിപരമായ പഠന അന്തരീക്ഷം സ്ഥാപിക്കുന്നതിനുള്ള കാരണം അതാണ് ഇത് എല്ലാ പഠിതാക്കളുടെയും പ്രതിഫലനം പ്രാപ്തമാക്കും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയും പ്രതിഫലിപ്പിക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിദ്യാർത്ഥികളും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത് ഭാവിയിലെ അനുഭവങ്ങളിൽ അവർ ഈ അറിവ് എങ്ങനെ പ്രയോഗിക്കും ടീമിലെ ഓരോ വിദ്യാർത്ഥിയും ഈ ചോദ്യങ്ങൾക്ക് വ്യക്തിഗതമായി ഉത്തരം നൽകേണ്ടത് വളരെ പ്രധാനമാണെന്ന് ശ്രദ്ധിക്കുക കൂട്ടായി അവർ പഠിക്കുന്നു പക്ഷേ പ്രതിഫലനം വ്യക്തിഗത തലത്തിലും സംഭവിക്കണം സാഹചര്യപരമായ പ്രശ്നങ്ങളും നടപ്പാക്കൽ ടിപ്പുകളും ഉണ്ട് പുതിയ അനുഭവത്തിൽ ഏർപ്പെടാനും വ്യാഖ്യാനിക്കാനും പഠിതാക്കൾക്ക് ആവശ്യമായ അടിത്തറ മുൻവ്യവസ്ഥാ അറിവ് നൽകുന്നതിന് ഇൻസ്ട്രക്ടർ തുടക്കത്തിൽ ഉപദേശപരമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതായി വന്നേക്കാം ചിലപ്പോൾ മുൻവ്യവസ്ഥയുടെ പശ്ചാത്തല അറിവ് പഠിതാക്കളിൽ ഉണ്ടാകണമെന്നില്ല അതിനാൽ പ്രസക്തമായ പശ്ചാത്തല അറിവ് നൽകുന്നതിന് ഇൻസ്ട്രക്ടർമാർക്ക് തുടക്കത്തിൽ ചില സെഷനുകൾ നേരിട്ടുള്ള നിർദ്ദേശത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയോ ചെലവഴിക്കേണ്ടിവരാം ഒരു നൈതിക അന്തരീക്ഷം സ്ഥാപിക്കുക ആസൂത്രിതമായ അനുഭവം വിദ്യാർത്ഥികൾക്ക് പുറം ലോകവുമായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾ വിദ്യാർത്ഥികളിൽ ധാർമ്മിക പെരുമാറ്റബോധം സൃഷ്ടിക്കുകയും പുറം ലോകവുമായി ശരിയായ ഇടപെടലിന് അവരെ പരിശീലിപ്പിക്കുകയും വേണം ഉദാഹരണം കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികളുക്കായി ബ്രെയ്ലി ട്യൂട്ടർ വികസിപ്പിക്കുന്നതിനുള്ള പ്രശ്നത്തിൽ ഏർപ്പെടുമ്പോൾ പ്രവർത്തിക്കുന്ന ടീമുകളെ കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികളുമായി എങ്ങനെ സംവദിക്കണം എന്നതിനെക്കുറിച്ച് ഒരാൾ പരിശീലിപ്പിക്കണം അതിലൂടെ ആശയവിനിമയം ക്രിയാത്മകമായി തുടരും ഇത് എല്ലായ്പ്പോഴും ഓരോ വിദ്യാർത്ഥിക്കും സാധ്യമാകണമെന്നില്ല അതിനാൽ വിദ്യാർത്ഥികൾക്ക് ശരിയായ പരിശീലനം ലഭിക്കുന്നുണ്ടെന്നും ബാഹ്യ ലോകവുമായി സംവദിക്കാൻ അനുവദിക്കുന്നതിനുമുമ്പ് ശരിയായ നൈതിക അന്തരീക്ഷം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇൻസ്ട്രക്ടർ ഉറപ്പാക്കണം മുൻ അനുഭവം സജീവമാക്കുന്നു മുമ്പത്തെ യൂണിറ്റുകളിലും പ്രബോധന ഘടകങ്ങളെക്കുറിച്ചും ചർച്ചചെയ്തത് മുൻ അനുഭവം സജീവമാക്കുന്നതിന് നിരവധി വ്യത്യസ്ത ചോയിസുകൾ നിലവിലുണ്ട് ചർച്ച സ്റ്റോറികൾ മുതലായവ ഈ ഘടകങ്ങളെ ഇൻസ്ട്രക്ടർ പഠന ഗ്രൂപ്പുകളുടെ പ്രത്യേകതകൾ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുത്ത് പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട് ഈ ഘടകങ്ങൾ പുതിയ അനുഭവങ്ങൾ സജീവമാക്കുന്നു യഥാർത്ഥ അനുഭവങ്ങൾ നൽകുന്നത് വളരെ ചെലവേറിയതോ അപകടസാധ്യതയുള്ളതോ ആയാൽ സിമുലേഷൻ ഉപയോഗിക്കുക അപകടസാധ്യതയുള്ള പരിസ്ഥിതിയുടെ കാര്യം ഞങ്ങൾ ഇതിനകം കണ്ടു ഇത് ചെലവേറിയതാണെങ്കിൽപ്പോലും ഞങ്ങൾ സിമുലേഷനെ അടിസ്ഥാനമാക്കിയുള്ള അനുഭവം നൽകേണ്ടതുണ്ട് പരീക്ഷണാത്മക പഠനത്തിന്റെ മറ്റ് തത്ത്വങ്ങൾ പിന്തുടരുകയാണെങ്കിൽ സിമുലേഷനെ അടിസ്ഥാനമാക്കിയുള്ള അനുഭവവും ന്യായമായ അനുഭവവും നൽകുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും നിർബന്ധിതമായിത്തീർന്ന ഇന്റേൺഷിപ്പുകൾ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്താൽ പരീക്ഷണാത്മക സമീപനം നടപ്പിലാക്കുന്നതിന് മികച്ച അവസരങ്ങൾ നൽകുന്നു കാരണം ചില അർത്ഥത്തിൽ ഇന്റേൺഷിപ്പ് പഠിതാക്കൾക്ക് അവർക്ക് പിന്നീട് യഥാർത്ഥത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള പ്രൊഫഷണൽ അനുഭവത്തിന് സമാനമായ അനുഭവത്തിലൂടെ കടന്നുപോകാൻ സഹായിക്കും മുഴുവൻ പ്രക്രിയയും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം പിന്തുടരുകയാണെങ്കിൽ പരീക്ഷണാത്മക സമീപനം നടപ്പിലാക്കുന്നതിന് ഇന്റേൺഷിപ്പുകൾ ഒരു മികച്ച അവസരം നൽകുന്നു ഏതൊരു അനുഭവത്തിനും സന്ദർഭം ക്രമീകരിക്കുക മൂല്യനിർണ്ണയ മാനദണ്ഡത്തെ തെര്യപ്പെടുത്തുക വിദ്യാർത്ഥികളെ ആ അനുഭവത്തെ പ്രതിഫലിപ്പിക്കാൻ പ്രേരിപ്പിക്കുക ഈ തത്ത്വങ്ങളെല്ലാം നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ കാര്യത്തിൽ ഇന്റേൺഷിപ്പുകൾ തികച്ചും ഉപയോഗപ്രദമാകും പ്രതിഫലനത്തിനുള്ള മികച്ച വാഹനങ്ങളാണ് ജേർണലുകൾ എന്ന് ഞങ്ങൾ നേരത്തെ ഒരു തവണ ചർച്ചചെയ്തു പഠിതാവ് കടന്നുപോകുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ് അത് സംഭവിക്കുമ്പോൾ ഒരു ജേർണലിലും അവസാനം ജേർണൽ എൻട്രികളുടെ ഒരു സംഗ്രഹം പ്രതിഫലനത്തിന് വളരെ നല്ല അടിസ്ഥാനം നൽകുമെന്ന് അവർ രേഖപ്പെടുത്തുന്നു പക്ഷേ ജേർണലുകൾ വികസിപ്പിക്കുന്നതിന് ഇൻസ്ട്രക്ടർമാർ പഠിതാക്കൾക്ക് ചില പരിശീലനം നൽകേണ്ടതായി വന്നേക്കാം ജേർണലുകൾ വിലയിരുത്തുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്യണം അല്ലാത്തപക്ഷം വിദ്യാർത്ഥികൾക്ക് ഒരു യഥാർത്ഥ ജേർണൽ നിലനിർത്താൻ കഴിയില്ല മികച്ച ഗ്രേഡിംഗിലേക്ക് നയിക്കുന്ന ഒരു ജേർണൽ അവർ സമന്വയിപ്പിച്ചേക്കാം മൂല്യനിർണ്ണയ മാനദണ്ഡം വിദ്യാർത്ഥികൾ അവരുടെ ജേർണലുകൾ വികസിപ്പിക്കുന്ന രീതിയെ പക്ഷപാതപരമാക്കരുതെന്നത് വളരെ പ്രധാനമാണ് ജേർണലുകൾ വിദ്യാർത്ഥിയുടെ ആധികാരിക അനുഭവങ്ങൾ രേഖപ്പെടുത്തണം അനുഭവത്തിൽ നിന്ന് പഠനം മാത്രമേ സംഭവിക്കൂ കർശനമായ നിർദ്ദേശ ഷെഡ്യൂളുകൾ കാരണം ഔപചാരിക പ്രോഗ്രാമുകളിൽ പുതിയ അനുഭവത്തിലേക്ക് നിഗമനങ്ങളിൽ പ്രയോഗിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് പരിമിതമായ സമയത്തിനുള്ളിൽ ചർച്ചകൾ മാത്രമേ ഉപയോഗിക്കേണ്ടി വരൂ വിദ്യാർത്ഥി ഗ്രൂപ്പുകളുമായി ചർച്ച അവരോട് ചോദിക്കുന്നു ഇതുപോലുള്ള ഒരു പുതിയ സാഹചര്യത്തിൽ നിങ്ങൾ ഈ അനുഭവം എങ്ങനെ ഉപയോഗിക്കും സാഹചര്യം വിവരിക്കുകയും വിദ്യാർത്ഥികളോട് അവരുടെ അറിവ് എങ്ങനെ പ്രയോഗിക്കുമെന്ന് ചോദിക്കുകയും ചെയ്യുക ഒരു ഔപചാരിക പ്രോഗ്രാമിൽ പരിമിതമായ ചർച്ച മാത്രമേ സാധ്യമാകൂ പ്രോഗ്രാം പാഠ്യപദ്ധതിയിലെ പരീക്ഷണാത്മക സമീപനം ഞങ്ങൾ എവിടെ നടപ്പിലാക്കും ഔപചാരിക എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ വലിയ തോതിൽ നിർദ്ദേശങ്ങളോടുള്ള പരീക്ഷണാത്മക സമീപനം ഉൾപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം സാധാരണയായി ഞങ്ങളുടെ പ്രോഗ്രാമുകൾ വളരെ കർശനമായി ഷെഡ്യൂൾ ചെയ്യും നേരിട്ടുള്ള നിർദ്ദേശത്തിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുടെ ഗണ്യമായ അളവ് ഉണ്ട് സാധാരണയായി ഷെഡ്യൂളുകൾ വളരെ കർശനമാണ് പരീക്ഷണാത്മക സമീപനം വളരെ വലിയ തോതിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും വാസ്തവത്തിൽ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം പ്രശ്നം അടിസ്ഥാനമാക്കിയുള്ള സമീപനം എന്നിവയിലും ഇത് ബാധകമാണ് തിരഞ്ഞെടുത്ത കോഴ്സുകളിൽ തിരഞ്ഞെടുത്ത സെമസ്റ്ററുകളിൽ മാത്രമേ അവ നടപ്പിലാക്കാൻ കഴിയൂ വളരെ വലിയ തോതിലല്ല നിർദ്ദിഷ്ട കോഴ്സുകളിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് റിപ്പോർട്ടുചെയ്ത കേസുകൾ പൊതുവെ വിവരിക്കുന്നു അതിനാൽ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം അല്ലെങ്കിൽ പ്രശ്ന അധിഷ്ഠിത സമീപനം പോലെ ഒരു സാധാരണ കോഴ്സിന്റെ ലബോറട്ടറി ഘടകം നടപ്പിലാക്കുന്നതിന് പരീക്ഷണാത്മക സമീപനവും ഉപയോഗിക്കാം ലബോറട്ടറി മുൻനിശ്ചയിച്ച അഭ്യാസങ്ങളുടെ ഒരു പരമ്പരയായിരിക്കുന്നതിനുപകരം അത് വിദ്യാർത്ഥികൾക്ക് കടന്നുപോകുന്ന ഒരു അനുഭവമായിരിക്കും തുടർന്ന് അവർ ആ അനുഭവത്തെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുകയും ഒരു സാധാരണ കോഴ്സിന്റെ ലബോറട്ടറി ഘടകമായി വർത്തിക്കാൻ കഴിയുന്ന ഒരു ജേർണൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അത് പോലെ നടപ്പിലാക്കാൻ കഴിയും ലാബ് ഘടകമുള്ള ഏത് പതിവ് കോഴ്സും ഒരു പരീക്ഷണാത്മക സമീപനമാക്കി മാറ്റാം 0 സിദ്ധാന്തം 0 ട്യൂട്ടോറിയൽ 1 ലാബ് എന്നിവയുടെ ക്രെഡിറ്റ് ഘടനയുള്ള ഒരു സ്റ്റാൻഡ് എലോൺ കോഴ്സ് വാഗ്ദാനം ചെയ്യാനും കഴിയും അല്ലെങ്കിൽ 0 സിദ്ധാന്തം 0 ട്യൂട്ടോറിയൽ ലാബിന്റെ 2 ക്രെഡിറ്റുകൾ അത് പരീക്ഷണാത്മക സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വ്യക്തമായും ഇത് എപ്പോഴും വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല പക്ഷേ തീർച്ചയായും 2 3 4 സെമസ്റ്ററുകളിൽ ഇത് വാഗ്ദാനം ചെയ്യാൻ കഴിയും മേൽപ്പറഞ്ഞ എല്ലാ കേസുകളിലും ഈ നടപ്പാക്കൽ പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനത്തിൽ നിന്നോ പ്രശ്നഅധിഷ്ഠിത സമീപനത്തിൽ നിന്നോ വ്യത്യസ്തമാണെന്ന് ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണം വാസ്തവത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രബോധനത്തോടുള്ള പരീക്ഷണാത്മക സമീപനമായി റിപ്പോർട്ടുചെയ്ത ചില കേസ് പഠനങ്ങൾ മിക്കവാറും പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള സമീപനങ്ങളാണെന്ന് തോന്നുന്നു അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല മറിച്ച് പരീക്ഷണാത്മക സമീപനം നടപ്പിലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിന്റെ തത്ത്വങ്ങൾ പാലിക്കണം ഒരു പ്രത്യേക ഔപചാരിക പ്രോഗ്രാമിൽ ഇത് നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്റേൺഷിപ്പ് നിർബന്ധമാണ് പരീക്ഷണാത്മക സമീപനം ഫലപ്രദമായും കാര്യക്ഷമമായും നടപ്പിലാക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം അറ്റകുറ്റപ്പണി പോലുള്ള നിർദ്ദിഷ്ട മേഖലകളിൽ പരിശീലനം നൽകുന്നതിന് പരീക്ഷണാത്മക സമീപനം നടപ്പിലാക്കുന്നതിന് ചില സ്ഥാപനങ്ങൾ AVR ആഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റി പോലുള്ള സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്നു മാനേജ്മെന്റ് പ്രോഗ്രാമുകളിൽ ഫീൽഡ് പരിശീലനത്തെ അടിസ്ഥാനമാക്കി മാർക്കറ്റിംഗ് സേവന മേഖല തുടങ്ങിയ കോഴ്സുകളിൽ എക്സ്പോണൻഷ്യൽ സമീപനം അവതരിപ്പിക്കാൻ കഴിയും ചില സ്ഥാപനങ്ങൾ ഇത് പരീക്ഷിച്ചു അടിസ്ഥാനപരമായി സേവന പഠനം അനുഭവം അടിസ്ഥാനമാക്കിയുള്ളതാകാം കഴിഞ്ഞ രണ്ട് യൂണിറ്റുകളിലും ഈ യൂണിറ്റിലും ഞങ്ങൾ ചർച്ച ചെയ്ത മൂന്ന് സമീപനങ്ങളും അവയെല്ലാം ഏതെങ്കിലും അർത്ഥത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു പ്രോജക്റ്റ് അധിഷ്ഠിത സമീപനം പ്രശ്ന അധിഷ്ഠിത സമീപനം പരീക്ഷണാത്മക സമീപനം ഇവയെല്ലാം ചെയ്യുന്നതിലൂടെ പഠന തത്ത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവയെല്ലാം ചെയ്യുക എന്ന പഠന തത്ത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നിരുന്നാലും അവ വ്യത്യസ്തമായ സമീപനങ്ങളാണ് കേന്ദ്രബിന്ദു നടപടിക്രമം പ്രതീക്ഷിച്ച അന്തിമ ഫലങ്ങൾ ഇവ കുറച്ച് വ്യത്യസ്തമാണ് ഔപചാരിക എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ വലിയ തോതിൽ നടപ്പിലാക്കുന്നതിലെ ബുദ്ധിമുട്ട് ഈ മൂന്ന് സമീപനങ്ങളുടെയും ഒരു പൊതു സവിശേഷതയാണ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലെ നിലവിലെ വെല്ലുവിളികളെ നേരിടാൻ എല്ലാം ഈ പ്രോഗ്രാമുകൾ ഉപയോഗിക്കുന്നു ഔപചാരിക പ്രോഗ്രാമുകളിൽ എത്രത്തോളം ഈ സമീപനങ്ങൾ നടപ്പിലാക്കാൻ കഴിയും അതിൽ ഈ സമീപനങ്ങൾ എത്ര സമന്വയിപ്പിക്കാൻ ശ്രമിക്കണം അവയെല്ലാം സാഹചര്യപരമായ പ്രശ്നങ്ങളാണ് ഏതൊക്കെ സമീപനങ്ങളാണ് അവർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും സ്ഥാപനങ്ങൾ തീരുമാനിക്കണം ഈ സമീപനങ്ങൾ അവരുടെ ഔപചാരിക പ്രോഗ്രാമിലേക്ക് എത്രത്തോളം സംയോജിപ്പിക്കേണ്ടതുണ്ടെന്നും വിജയത്തിന് ഉറപ്പുനൽകുന്ന പരീക്ഷണാത്മക കാര്യനിർവ്വഹണമാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർക്ക് ഫലവത്താകുന്ന ഏറ്റവും മികച്ചത് എന്താണെന്ന് പരീക്ഷിച്ച് തീരുമാനിക്കണം ഒരു നിശ്ചിത സന്ദർഭത്തിൽ ആ നിർദ്ദിഷ്ട സന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള സമീപനങ്ങൾ അവർ വികസിപ്പിക്കണം നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ സമീപനം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നതായോ വിവരിക്കുക അത്തരമൊരു സമീപനത്തിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയെക്കുറിച്ച് ദയവായി അഭിപ്രായപ്പെടുക കഴിയുമെങ്കിൽ ദയവായി 300 ൽ താഴെ വാക്കുകൾ ഉപയോഗിക്കുക എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ കുഴപ്പമില്ള നിങ്ങളുടെ അനുഭവം പങ്കിടുക അഭ്യാസത്തിന്റെ ഫലങ്ങൾ പങ്കിട്ടതിന് നന്ദി story com അടുത്ത യൂണിറ്റിൽ നിർദ്ദേശങ്ങളോടുള്ള അനുകരണ സമീപനം ഞങ്ങൾ മനസ്സിലാക്കുന്നു സിമുലേഷൻ ഉപയോഗിക്കാൻ കഴിയുന്ന സന്ദർഭം എന്താണ് അതിന്റെ ശക്തി പരിമിതികൾ എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതാണ് അടുത്ത യൂണിറ്റിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അതുവരെ ഞങ്ങൾ കാത്തിരിക്കും